രണ്ടാം ആഴ്ചയിലെ അഞ്ചാം മോഡ്യൂളിലേക്ക് സ്വാഗതം കഴിഞ്ഞ മോഡ്യൂളിൽ മുഖഭാവങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഏറ്റവും പുതിയ സാങ്കേതിക മുന്നേറ്റങ്ങളിൽ അവയ്ക്കുള്ള പങ്കിനെക്കുറിച്ചുമായിരുന്നു സംസാരിച്ചത് പികാർഡ് എന്ന തത്വം മുന്നോട്ട് വച്ചപ്പോൾ മുതൽ മുഖഭാവങ്ങളെയും അവ കമ്പ്യൂട്ടറുകൾ തിരിച്ചറിയുന്നതിനെയും കുറിച്ചുള്ള പഠനങ്ങൾ വിപുലമായിട്ടുണ്ട് മനുഷ്യരുടെ വികാരങ്ങൾ മുഖത്തു നിന്ന് സ്വയമേ നേരിട്ട് മനസിലാക്കുന്നതിനുള്ള അൽഗോരിതങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ രീതികളിൽ അത് നടപ്പിലാക്കാനുള്ള പഠനങ്ങൾ തുടരുകയും ചെയ്യുന്നു മുഖഭാവങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു പ്രധാന വശം സൂക്ഷ്മ ഭാവങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെ അനുസരിച്ചാണിരിക്കുന്നത് വളരെ ചെറിയ സമയദൈർഖ്യത്തിലേക്ക് മാത്രം നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഭാവങ്ങളെയാണ് സൂക്ഷ്മ ഭാവങ്ങൾ എന്ന് വിളിക്കുന്നത് അര സെക്കൻഡ് മുതൽ നാല് സെക്കൻഡ് വരെയൊക്കെയേ അവ നിൽക്കുന്നുള്ളു അതിലും കുറവാണ് ദൈർഖ്യമെന്ന് ഗവേഷകർ പറയുന്നു ഉദാഹരണത്തിന് അര സെക്കൻഡ് മുതൽ രണ്ട് സെക്കൻഡ് വരെ ആണെന്ന് ചില ഗവേഷകർ പറയുമ്പോൾ മറ്റു ചിലർ പറയുന്നത് അതിലും കുറവാണെന്നാണ് നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചതുപോലെ നമ്മുടെ മുഖത്തു സാധാരണ വരുന്ന സാമാന്യ ഭാവങ്ങളാണ് സ്ഥൂല ഭാവങ്ങൾ ഈ ഭാവങ്ങൾ നമ്മുടെ സംഭാഷണത്തിൻ്റെ ഉള്ളടക്കത്തിനോടും നമ്മുടെ ശബ്ദ ക്രമത്തിനോട് ചേർന്നിരിക്കുന്നതായിരിക്കും അവ സാധാരണമായി മറ്റുള്ളവർക്ക് കാണാനും വിലയിരുത്താനും സാധിക്കുകയും അതുവഴി ആശയവിനിമയത്തിൽ ഒരു പ്രധാന പങ്കു വഹിക്കുകയും ചെയ്യുന്നു അവ കാഴ്ചക്കാർക്ക് പൊതുവെ മനസിലാക്കാൻ സാധിക്കുന്നു കൂടാതെ അവയ്ക്ക് ഒരു ആവർത്തനപരതയുമുണ്ട് എന്നാൽ മറുവശത്തു സൂക്ഷ്മഭാവങ്ങൾ പൊതുവെ ഗോപ്യമായവയാണ്

സംസാരിക്കുന്നയാൾക്ക് തുറന്ന് പ്രകടിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള വികാരങ്ങളും അതുവഴി അടക്കിവയ്ക്കപ്പെട്ട വികാരങ്ങളുടെ സൂചനയുമാണ് സൂക്ഷ്മ ഭാവങ്ങൾ അതേ സമയം സൂക്ഷ്മഭാവങ്ങൾ മറച്ചു വയ്ക്കുക എന്നത് സാമാന്യം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ഉള്ളിൽ ഒരേസമയം രണ്ടു പരസ്പര വിരുദ്ധ വികാരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സാധാരണ സൂക്ഷ്മ വികാരങ്ങൾ സംഭവിക്കുന്നത് ഈ പ്രതികരണങ്ങളിൽ ഒന്ന് സ്വേച്ഛാപരവും അടുത്തത് ഇച്ഛാപരമല്ലാത്തുമായിരിക്കും ഈ പ്രതികരണങ്ങൾ പരസ്പര വിരുദ്ധവുമായിരിക്കും ഉദാഹരണത്തിന് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയ ദേഷ്യം ഉള്ളപ്പോഴും മുഖത്ത് സന്തോഷവും കൃതജ്ഞതയും കാണിക്കേണ്ടതായി വന്നേക്കാം അപ്പോൾ അതിലൊരു വികാരം മറ്റൊന്നിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നതായി കാണാം ഈ രണ്ടു വികാരങ്ങളും പരസ്പരവിരുദ്ധമാണ് അപ്പോൾ സ്വേച്ഛാപരമായി ഉണ്ടാക്കുന്ന സ്ഥൂലഭാവം സന്തോഷത്തിൻറെയും കൃതജ്ഞതയുടെയും ഭാവങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും മറുവശത്ത് സൂക്ഷമഭാവനങ്ങളെ നിരീക്ഷിച്ചാൽ യഥാർത്ഥ വികാരം എന്താണെന്നു മനസ്സിലാവുകയും ചെയ്യും അവ ചുരുങ്ങിയ സമയെത്തേയ്ക്കെ മാത്രമെ ദൃശ്യമാവുകയുള്ളു എങ്കിലും സംസാരിക്കുന്ന ആൾക്കോ കേൾവിക്കാരനോ അവ മറച്ചു പിടിക്കുന്നത് പ്രയാസകരമാണ് സൂക്ഷ്മ വികാരങ്ങൾ മനസ്സിലാക്കുന്നത് ശ്രമകരമാണ് എന്നിരിക്കെ തന്നെ അവ മറച്ചുവയ്ക്കുന്നതും ശ്രമകരം തന്നെയാണ് സൂക്ഷ്മഭാവങ്ങൾ കൃത്യമായി മനസിലാക്കാനായാൽ ആശയവിനിമയത്തെക്കുറിച്ചു കൂടുതൽ മനസിലാക്കുന്നതിലേക്കുള്ള ആണിക്കല്ലാകും അത് സൂക്ഷ്മഭാവങ്ങൾ മനസിലാക്കാനായാൽ അത് നമ്മൾ ജീവിക്കുന്ന സങ്കീർണമായ വൈകാരിക ലോകത്തെക്കുറിച്ചു മനസിലാക്കുന്നതിന് അത്യധികം സഹായകമാകും നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യർ എന്തൊക്കെ അനുഭവിക്കുന്നുവെന്ന് അറിയണോ നമ്മൾ ജീവിക്കുന്ന സങ്കീർണ്ണമായ ഈ വൈകാരിക ലോകത്തേക്കുറിച്ച് കൂടുതൽ മനസിലാക്കാൻ സൂക്ഷ്മ ഭാവങ്ങൾ അത്യധികം സഹായകമാണ് ഏറ്റവും പുതിയ ഗവേണഷണങ്ങൾ പറയുന്നത് മനുഷ്യരുടെ തൊഴിൽപരമായ അഭിവൃദ്ധി അവരുടെ വൈകാരിക വിവേകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് വികാരങ്ങളുടെ സൂചനകളെ വായിക്കാനുള്ള കഴിവ് വൈകാരിക വിവേകത്തിൻ്റെ ഒരു സുപ്രധാന ഘടകമാണ് അത് നിങ്ങളെ മറ്റുള്ളവരുമായുള്ള ആശയവിനിമയത്തിനും അർത്ഥവത്തായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും സഹായകമാണ് അപ്പോൾ എന്താണ് സൂക്ഷ്മ ഭാവങ്ങൾ സന്ദിഗ്ദമായ സാഹചര്യങ്ങളിൽ പെടുമ്പോൾ യഥാർത്ഥ വികാരങ്ങൾ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്ന മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് അറിയാതെ സംഭവിക്കുന്ന ചില ചോർച്ചകളാണ് സൂക്ഷ്മഭാവങ്ങൾ അവ മിക്കവാറും ഒരു നിമിഷത്ത്തിൻറെ പകുതിയോളമേ നീണ്ടുനിൽക്കുന്നുള്ളു വംശം സംസ്കാരം പ്രായം ലിംഗം മുതലായ വ്യത്യാസങ്ങൾ ഇല്ലാതെ എല്ലാ മനുഷ്യരിലും ഒരേപോലെ വെളിവാകുന്ന നിരവധി സാർവത്രിക മുഖഭാവങ്ങൾ ശാസ്ത്രജ്ഞർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യർക്ക് ഇതെല്ലം ആപേക്ഷികമായി മനസ്സിലാക്കാനാകും എന്നും പഠനങ്ങൾ പറയുന്നു സൂക്ഷ്മ ഭാവങ്ങൾ എന്ന ആശയവും പ്രയോഗവും പ്രചാരത്തിലായത് ലൈ ടു മി എന്ന ഒരു അമേരിക്കൻ ടെലിവിഷൻ കുറ്റാന്വേഷണ തുടർക്കഥയിലൂടെയാണ് ആദ്യമായി 2009 ജനുവരിയിൽ ഫോക്സ് നെറ്റ്വർക്ക് അദ്ദേഹത്തിൻറെ സഹപ്രവർത്തകരോടൊപ്പം കുറ്റാന്വേഷണങ്ങളിൽ പങ്കെടുക്കുകയും കുറ്റകൃത്യങ്ങളുടെ ചുരുളുകൾ കൃത്യമായി അഴിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു മുഖത്തിൻറെ ചലനങ്ങളിലൂടെയും ശരീര ഭാഷയിലൂടെയും സൂക്ഷ്മഭാവങ്ങൾ വിശകലനം ചെയ്യുകയാണ് അവരുടെ രീതിശാസ്ത്രം കാൽ ലൈറ്റ്മൻ എന്ന സമർത്ഥനായ സാങ്കൽപ്പിക കഥാപാത്രവും സൂക്ഷ്മതയോടെ തിരഞ്ഞെടുത്ത അദ്ദേഹത്തിൻറെ കൂട്ടാളികളും ആണ് ലൈ ടു മി എന്ന പരമ്പരയുടെ ആകർഷണം കഥാഗതിയിൽ അവർ കൂട്ടായി സൂക്ഷ്മഭാവങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്ന സാങ്കേതിക വിദ്യ അതിൻ്റെ ഉന്നതിയിൽ എത്തിച്ചിരിക്കുന്നു ഈ പരമ്പരയുടെ വിവിധ ഭാഗങ്ങളിലൂടെ സൂക്ഷ്മഭാവങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങൾ പൊതുലോകത്തിന് മുന്നിലെത്തിയിട്ടുണ്ട് ഒരു തുടിപ്പ് ചുളുക്കം ഒരു കണ്ണനക്കം കൺപോളകൾ ഉയർന്നിരിക്കുന്നു ഭൂരിഭാഗം ആളുകളും ഇതൊന്നും തിരിച്ചറിയുക കൂടിയില്ല ഡോക്ടർ കാൽ ലൈറ്റ്മൻ ഉണ്ടെങ്കിൽ അവരെല്ലാം അദ്ദേഹത്തിന് അറിയേണ്ടതെല്ലാം പറഞ്ഞു കൊടുക്കും നിങ്ങളൊരു കുറ്റകൃത്യം മൂടി വെയ്ക്കുവാനുള്ള ശ്രമത്തിലാണോ കാപട്യം കണ്ടുപിടിക്കുന്നതിന് ഈ ലോകത്ത് അദ്ദേഹത്തിനോളം വരുന്ന മറ്റൊരു വിദഗ്ദ്ധൻ ഇല്ല പ്രസിഡൻറ്റ് നേരിട്ട് അദ്ദേഹത്തെ ഈ ജോലിയിലേക്ക് വേണമെന്ന് പറയുകയുണ്ടായി അഹ്ദേഹത്തിൻ്റെ സമർത്ഥരായ കൂട്ടാളികളോടൊപ്പം സൂക്ഷ്മഭാവങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്ന സാങ്കേതിക വിദ്യ അതിൻ്റെ ഉന്നതിയിൽ എത്തിച്ചിരിക്കുന്നു നിങ്ങൾ ശ്വാസം അടക്കിപ്പിടിച്ചിരിക്കുന്നു നിങ്ങൾ എന്തോ ഒളിപ്പിക്കുന്നുണ്ട് രണ്ടു കെട്ടിടങ്ങൾ നിങ്ങൾ കള്ളം പറയുന്നുവെങ്കിൽ അതെനിക്ക് തീർച്ചയായും മനസ്സിലാകും പക്ഷെ എന്തിന് മനുഷ്യരുടെ മുഖത്തുണ്ടാകുന്ന വികാരപ്രകടനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ വാക്യേതര ആശയവിനിമയങ്ങളെക്കുറിച്ചു പഠിക്കുന്നതിന്റെ ഭാഗമായി നിരവധി നരവംശ ശാസ്ത്രജ്ഞരും മറ്റും നടത്തിയിട്ടുണ്ടെങ്കിലും ഈ ഹാഗ്ഗർട് കെ എസ് ഐസാക്സ് ചെയ്തു കാണുമ്പോൾ മാത്രമാണ് ശ്രദ്ധയിൽ പെടുകയെന്ന് അവർ പറയുന്നു ചില ഭാവങ്ങൾ വളരെ കുറച്ചു സമയമേ നീണ്ടു നിൽകുകയുള്ളൂ പലപ്പോഴും നമ്മൾ അറിയാതെ അവ മാഞ്ഞു പോയേക്കും അതുകൊണ്ടാണ് അവയെ സൂക്ഷ്മ ക്ഷണിക വികാരങ്ങൾ എന്ന് വിളിക്കുന്നത് പോൾ എക്മാൻ കാപട്യത്തെക്കുറിച്ചുള്ള തൻ്റെ പഠനങ്ങളിൽ ഇതിനോട് സമാനമായ കണ്ടെത്തലുകൾ നടത്തുകയും സമാനമായ പെരുമാറ്റ രീതികൾ നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് കാണാം അദ്ദേഹവും ഈ സൂക്ഷ്മഭാവങ്ങളെക്കുറിച്ചു ബോധവാനായിരുന്നു അദ്ദേഹമാണ് ആ പദം ആദ്യമായി ഉപയോഗിക്കുന്നത് 1985ൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ടെല്ലിങ് ലൈസ് ക്ലൂസ് റ്റു ഡിസീറ്റ് ഇൻ മാർക്കറ്റ് പ്ലേസ് പൊളിറ്റിക്സ് ആൻഡ് മാര്യേജ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ 2009ൽ ഇറങ്ങിയ പുതുക്കിയ പതിപ്പിലാണ് അദ്ദേഹം സൂക്ഷ്മഭാവങ്ങൾ എന്ന പദം കൊണ്ട് താൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വിശദമാക്കിയത് പോൾ എക്മാൻറെ പഠനങ്ങൾ ഈ ശാഖയിൽ വഴിത്തിരിവുണ്ടാക്കിയവയാണ് എന്ന് മാത്രമല്ല നമ്മുടെ വികാരച്ചോർച്ചകൾ മനസിലാക്കാനുള്ള ഉൾകാഴ്ചയും പെരുമാറ്റങ്ങളിലെ കാപട്യം മനസ്സിലാക്കുന്നതിനുള്ള സൂചനകളും തരുന്നുണ്ട് ഈ പുസ്തകത്തിൽ രാജ്യാന്തര തലത്തിൽ പോലും പ്രശസ്തരായ അഡോൾഫ് ഹിറ്റ്ലർ പോലെയുള്ള പ്രമുഖരുടെ കാപട്യത്തിൻറെ ശൈലികളെക്കുറിച്ചും അതോടൊപ്പം സ്ഥൂല സൂക്ഷ്മ വികാരങ്ങളെ പ്രത്യേകം മനസ്സിലാക്കുന്നതിനായി നിസ്സാര കുറ്റവാളികളുടെയും അസാന്മാർഗ്ഗികരുടെയും ഒക്കെ പെരുമാറ്റത്തിലെ കാപട്യങ്ങളെക്കുറിച്ചും വിശദമായ പഠനവും ഉണ്ട് കള്ളങ്ങൾ മറ്റുള്ള തെറ്റായ വിവരങ്ങളിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നും അദ്ദേഹത്തിൻ്റെ പഠനം പ്രതിപാദിക്കുന്നു ഒരു വ്യക്തിയുടെ ശരീരഭാഷ ശബ്ദം മുഖഭാവങ്ങൾ തുടങ്ങിയവയിലൂടെ ഒരു കള്ളം എങ്ങനെ പുറത്താകുന്നു എന്നും സൂക്ഷ്മ ഭാവങ്ങൾ മനസിലാക്കാനാകുന്ന ഒരു വ്യക്തിക്ക് ഇതെങ്ങനെ വേഗം കണ്ടുപിടിക്കാനാകുന്നു എന്നും അദ്ദേഹം കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ട് എന്നിരുന്നാലും കള്ളം പറയുന്നവർക്ക് വിദഗ്ധരുടെ പിടിയിൽനിന്ന് രക്ഷപെടാനാകും ഉദാഹരണത്തിന് പോലീസ് ഉദ്യോഗസ്ഥരുടെയും ന്യായാധിപരുടെയും മറ്റു നിയമപാലകരുടെയും അതുമല്ലതെ കള്ളം കണ്ടുപിടിക്കുന്നതിനുള്ള യന്ത്രങ്ങളെ വരെയും കബളിപ്പിക്കാനാവും സൂക്ഷ്മഭാവങ്ങൾ എല്ലാവരിലും ഉണ്ടാകുന്നതാണ് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ അവ മറച്ചു വയ്ക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ് തന്നെയുമല്ല അവ പൂര്ണബോധത്തോടെ ആവില്ല പുറത്തു വരുന്നതും ഇത് സംഭവിക്കുന്നത് നമുക്ക് തടയാനുമാവില്ല കൂടാതെ ഈ ചോർച്ച മനസിലാക്കാൻ പഠിക്കുന്നത് വൈകാരിക വിവേകത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് മറ്റുള്ളവരുടെ പെരുമാറ്റം മനസ്സിലാക്കാനും ഇത് സഹായകമാണ് ഈ ലിസ്റ്റിൽനിന്ന് നമുക്ക് സ്ഥൂല ഭാവങ്ങളും സൂക്ഷ്മ ഭാവങ്ങളും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തരുന്നു പ്രകടമായതും എളുപ്പം മനസ്സിലാക്കാനാവുന്നതുമായ സാധാരണ മുഖഭാവങ്ങളെയാണ് സ്ഥൂലഭാവങ്ങൾ എന്ന് പറയുന്നത് ഇവയോട് താരതമ്യപ്പെടുത്തിയാൽ സൂക്ഷ്മഭാവങ്ങൾ ഒന്നുകിൽ ദുർവ്യാഖ്യാനിക്കപ്പെടുകയോ അല്ലെങ്കിൽ പൂർണമായും ഒഴിവാക്കപ്പെടുകയോ ചെയ്യുന്നു എല്ലാവർക്കും സൂക്ഷ്മഭാവങ്ങളും സ്ഥൂലഭാവങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസിലാവണമെന്നില്ല അതോടൊപ്പം പലപ്പോഴും സൂക്ഷ്മഭാവങ്ങളുടെ അർത്ഥവും പ്രാധാന്യവും നഷ്ടപ്പെട്ടു പോകുകയും ചെയ്യുന്നു സ്ഥൂലഭാവങ്ങൾ ഏതാനും നിമിഷങ്ങൾ വരെ മുഖത്തുണ്ടാകും അതുവഴി ഏറെക്കുറെ എല്ലാവര്ക്കും അവ വ്യക്തമായി മുഖത്ത്നിന്ന്തന്നെ മനസിലാക്കാനാവുകയും ചെയ്യുന്നു അതേസമയം സൂക്ഷ്മഭാവങ്ങൾ നിമിഷാർദ്ധം പോലും ചിലപ്പോൾ നീണ്ടു നിൽക്കുന്നില്ല അതിനാൽത്തന്നെ തിരിച്ചറിയുന്നതും ശ്രമകരമാകുന്നു സ്ഥൂലഭാവങ്ങൾ നമ്മുടെ ശബ്ദത്തിലൂടെയും വാക്കുകളിലൂടെയും പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്ന അതെ വികാരങ്ങൾ തന്നെയാകുന്നതുകൊണ്ട് നമ്മുടെ ശബ്ദ ഭാവത്തോടും വാക്കുകളോടും ചേർന്നിരിക്കുന്നതായിരിക്കും അതേസമയം സൂക്ഷമഭാവങ്ങൾ ബോധപൂർവ്വമല്ലാതെ ഒളിച്ചു വക്കപ്പെട്ട വികാരങ്ങളെ പ്രകടമാക്കുന്നു സൂക്ഷ്മ ഭാവങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലും പ്രയോജനകരമാണ് ശരീരഭാഷയെക്കുറിച്ചുള്ള അറിവ് ഒരാളുടെ യഥാർത്ഥ ഉദ്ദേശം മനസിലാക്കാൻ സഹയിക്കുമ്പോൾ സൂക്ഷ്മഭാവങ്ങളെക്കുറിച്ചുള്ള അറിവ് ആ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നു സൂക്ഷ്മഭാവങ്ങൾ നമ്മളിൽ നിന്ന് അറിയാതെ പുറത്തു വരുന്നവയാണ് ഒരു മനുഷ്യൻറെ മനോവ്യാപാരങ്ങളും അയാളുടെ മാനസികാവസ്ഥയും പ്രതിഫലിപ്പിക്കുന്ന സൂക്ഷ്മഭാവങ്ങൾ അയാളുടെ മനസ്സിലെ വികാര വിക്ഷോഭങ്ങളിലേക്കുള്ള കിളിവാതിൽക്കൂടിയാണ് ചിലപ്പോൾ മുഖത്തിൻറെ ഏതെങ്കിലുമൊരു ഭാഗത്തുണ്ടാകുന്ന വളരെ ചെറിയ ഒരു ഭാവമാറ്റമാകാം അവയെ അടയാളപ്പെടുത്തുന്നത് അല്ലെങ്കിൽ മുഖത്താകമാനം വളരെ ചെറിയ സമയ ദൈർഖ്യം മാത്രമുള്ള ഒരു ഭാവമായിരിക്കാം വികാരങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് കൂടുന്നതിനനുസരിച്ചു കള്ളവും കാപട്യവും തിരിച്ചറിയാൻ അവ നമ്മളെ സഹായിക്കും എന്തെന്നാൽ ഭാഷകളിൽ നിന്ന് വിഭിന്നമായി സൂക്ഷ്മഭാവങ്ങൾക്ക് ഒരു സാർവത്രികതയുണ്ട് പോൾ എക്മാൻ തൻ്റെ പരിശീലന പരിപാടികൾ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞിരുന്നു എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഒരു മണിക്കൂർ ദൈർഖ്യം ഉള്ള സൂക്ഷ്മ ഭാവങ്ങളെ നിരീക്ഷിക്കാനും മനസ്സിലാക്കാനുമായിട്ടുള്ള ഒരു സ്വയം പരിശീലന പരിപാടിയായിരുന്നു അദ്ദേഹം ആവിഷ്കരിച്ചത് അത് സൂക്ഷ്മഭാവങ്ങളെ മനസിലാക്കുന്നതിന് സഹായകരമായിരുന്നു പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാവം എന്നാൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്ക് പോലെ തന്നെ സ്വയം അർത്ഥവത്താണ് ഒരു വാക്കിനു ചിലപ്പോൾ പല അർത്ഥങ്ങളുണ്ടാകും അപ്പോൾ അതിൻറെ യാതാർത്ഥ അർഥം മനസ്സിലാക്കാനായി അത് ഉപയോഗിക്കപ്പെട്ട സന്ദർഭവും മുഴുവനായി മനസിലാക്കേണ്ടതുണ്ട് സ്ഥൂലമോ സൂക്ഷ്മമോ ആയിക്കൊള്ളട്ടെ ഭാവങ്ങളെക്കുറിച്ചുള്ള അതിവായനകൾ ഒഴിവാക്കണം സൂക്ഷ്മഭാവങ്ങളെ പലതായി തരം തിരിച്ചിട്ടുണ്ട് അനുകരിക്കുന്നത് സമതുലിതമായത് മറച്ചുവച്ചത് എന്നിങ്ങനെ മൂന്നായിട്ടാണ് പ്രധാനമായും അവയെ തിരിച്ചിരിക്കുന്നത് അനുകരിക്കുന്ന സൂക്ഷ്മഭാവങ്ങളാണ് ഏറ്റവും സാധാരണമായി പഠനം നടന്നിട്ടുള്ളവ അതൊരു സത്യന്ധമായ വികാരത്തിൻ്റെ അകമ്പടിയോടുകൂടി ഉണ്ടാകുന്നതൊന്നും അല്ല പകരം ഒരു പ്രതികരണമായിട്ടാണ് അതുണ്ടാവുക മിന്നിമറയുന്ന ഒരു ഭാവമായിട്ടാണ് അത് ഉണ്ടാവുക അതേ വേഗത്തിൽ പഴയ സ്ഥിതിയിലേക്ക് പോവുകയും ചെയ്യുന്നു സമതുലിതമായ വികാരങ്ങൾ ഉണ്ടാകുന്നത് യഥാർത്ഥ വികാരങ്ങൾ അടക്കിപ്പിടിക്കുമ്പോഴാണ് സൂക്ഷ്മ ഭാവമൊഴിച്ചാൽ മുഖം വികാരരഹിതമായിരിക്കും ഇത്തരം സൂക്ഷ്മഭാവങ്ങൾ നിരീക്ഷിക്കാൻ പ്രയാസമാണ് പലർക്കും ഇവ ഒട്ടും തന്നെ പിടി കൊടുക്കാറില്ല മൂടിവയ്ക്കപ്പെട്ട ഭാവം ഉണ്ടാകുന്നത് ഒരു യഥാർത്ഥ വികാരം മുഴുവനായി ഒളിപ്പിക്കപ്പെട്ടിട്ട് പകരം കൃത്രിമമായ ഒരു ഭാവം പകരം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു മറച്ചുവയ്ക്കപ്പെട്ട ഭാവങ്ങൾ ബോധപൂർവമോ ഉപബോധപൂർവമോ ഒളിച്ചുവയ്ക്കപ്പെട്ട സൂക്ഷ്മഭാവങ്ങൾ തന്നെയാണ് മുഖത്തുണ്ടാകുന്ന സൂക്ഷ്മഭാവങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ വളരെ കുറച്ചു പേർക്കേ കഴിയാറുള്ളു ലോകജനതിയിലെ മൂന്ന് ശതമാനത്തോളം ആളുകൾക്കെ ഈ കഴിവ് ഉണ്ടാകുകയുള്ളൂ എന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത് സൂക്ഷ്മഭാവങ്ങൾ ഇച്ഛാധീനാമായോ അല്ലാതെയോ നിയന്ത്രിക്കാവുന്നതാണ് മുഖഭാവങ്ങളും ചിലപ്പോഴൊക്കെ നിയന്ത്രിക്കാനാകും ചില മനുഷ്യർ അവരുടെ ഭാവങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവ് ജന്മനാ ലഭിക്കുന്നു ഉദാഹരണത്തിന് ചില മനുഷ്യർ കുട്ടിക്കാലം മുതൽ ചെറിയ ചെറിയ കള്ളങ്ങളിൽ തുടങ്ങി പിടിക്കപ്പെടാതെ രക്ഷപെടുന്നു അങ്ങനെ കള്ളം പറയാനുള്ള അവരുടെ കഴിവ് വികസിക്കുന്നു എന്നാൽ മറ്റു ചില മനുഷ്യർക്ക് സൂക്ഷ്മവികാരങ്ങൾ നിയന്ത്രിക്കാൻ പരിശീലിക്കേണ്ടിവരുന്നു എന്നിരുന്നാലും എൻ്റെതിന് സമാനമായ തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്ക് സൂക്ഷ്മഭാവങ്ങൾ നിയന്ത്രിക്കുന്നത് പ്രയാസമേറിയ കാര്യമാണ് നമുക്ക് കാണാം ചിലപ്പോഴൊക്കെ മനുഷ്യർക്ക് വികാരങ്ങൾ കൃത്രിമമായി പ്രകടിപ്പിക്കാനാകും അവർ ഒരു പ്രത്യേക വികാരം അനുഭവിക്കുന്നുണ്ടെന്ന് അവർക്ക് അത് അനുഭവിക്കാതെ തന്നെ ഭാവിക്കാനാകും ഒരാൾക്ക് താൻ ഭയന്നിരിക്കുകയാണ് എന്ന് ഭാവിക്കാനാകും അയാൾ ഭയമോ മറ്റേതെങ്കിലും വികാരം തന്നെയോ അനുഭവിക്കാതെ തന്നെ അടക്കിവെച്ച ഭാവങ്ങൾ എന്ന് മറ്റൊരു പ്രയോഗം കൂടി എക്മാൻ ഉപയോഗിക്കുന്നുണ്ട് അതായത് പൊടുന്നനെ മുഖഭാവം മാറ്റുന്നതിലൂടെ യഥാർത്ഥ ഭാവം അടക്കിവയ്ക്കപ്പെടുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം സൂക്ഷ്മഭാവങ്ങൾ സമയ ദൈർഖ്യത്തിൻറെ കാര്യത്തിൽ പൂർണ്ണമാണ് പക്ഷെ കൂടുതൽ നീണ്ടു നിൽക്കാറുണ്ടെങ്കിലും അടക്കി വെച്ച ഭാവങ്ങൾ അങ്ങനെയല്ല നമ്മൾ മുഖഭാവങ്ങൾ നിയന്ത്രിക്കാൻ ശീലിക്കുന്നതിനു പല കാരണങ്ങളുണ്ട് കുടുംബങ്ങളിലും സമുദായങ്ങളിലും സാമൂഹിക സാംസ്കാരിക സമ്പ്രദായങ്ങളോ വ്യക്തിനിഷ്ഠമായ നിയന്ത്രണങ്ങളോ ഒക്കെ ഉണ്ടാവാം പല സമൂഹങ്ങളിലും ചെറിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പെരുമാറ്റങ്ങളിൽ പലതരം നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും പലപ്പോഴും ആൺകുട്ടികൾ കരയാതിരിക്കാനും പേടി പുറത്തു കാണിക്കാതിരിക്കാനും പറയാറുണ്ട് അതേസമയം പെൺകുട്ടികൾ ഉറക്കെ സംസാരിക്കാതിരിക്കാനും ദേഷ്യം കാണിക്കാതിരിക്കാനും പഠിപ്പിക്കാറുണ്ട് ഇതേ പോലെ ഓരോരുത്തർക്കും വ്യക്തിപരമായ പല നിയന്ത്രണങ്ങളും ഉണ്ടാകും കുടുംബങ്ങളിലോ ചെറിയ സമൂഹങ്ങളിലും അവരുടെ താല്പര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വ്യക്തിവാസനകൾ കൊണ്ടോ ഉണ്ടായി വന്ന സമ്പ്രദായങ്ങളാകാം ഇതൊക്കെ ഉദാഹരണത്തിന് ഒരു കുടുംബത്തിൽ അച്ഛനോട് ദേഷ്യം കാണിക്കാതിരിക്കാൻ അല്ലെങ്കിൽ നിരാശയുണ്ടാകുമ്പോ സങ്കടം പ്രകടിപ്പിക്കാതിരിക്കാൻ കുട്ടികൾ ശീലിക്കേണ്ടി വരാറുണ്ട് ഇങ്ങനെയെല്ലാം വളരെ ചെറുപ്പം മുതൽ ഇത്തരം നിയന്ത്രണങ്ങൾ അത് വ്യക്തിനിഷ്ഠമാണെങ്കിലും സാംസ്കാരികമാണെങ്കിലും ശീലിക്കപ്പെടുന്നു ഉദാഹരണത്തിന് ലിംഗഭേദം മൂന്ന് വയസ്സ് പൂർത്തിയാകുന്നതിനു മുൻപുതന്നെ കുട്ടികൾ ഹൃദിസ്ഥമാക്കുന്നു എന്ന് ഗവേഷകർ പറയുന്നു അങ്ങനെ നോക്കുമ്പോൾ സമ്പ്രദായങ്ങളും കുടുംബ ശീലങ്ങളും എല്ലാം ചേർന്ന് ഉണ്ടാകുന്ന ശീലങ്ങളായി നാമറിയാതെതന്നെ മുഖഭാവങ്ങളുടെ നിയന്ത്രണം ഉപബോധത്തിൽ ഉൾച്ചേരുന്നു ഈ ശീലങ്ങൾ മുഖഭാവങ്ങൾ നിയന്ത്രിക്കാൻ നമ്മെ സഹായിക്കുന്നു ഇവിടെ ഒരു സിനിമയിലെ വളരെ രസകരമായ ഒരു വീഡിയോ കാണാം സൂക്ഷ്മഭാവങ്ങളുടെയും ശരീര ഭാഷയുടെയും അവലോകനമാണിത് മൂന്നു മനുഷ്യർ എങ്ങനെയാണ് അവരെത്തന്നെ മാറ്റുന്നത് അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെ തരണം ചെയ്യുന്നു എന്നൊക്കെ കാണിക്കുന്ന ഒരു പ്രചോദകമായ കഥയാണിത് ശരീര ഭാഷയുടെയും സൂക്ഷ്മഭാവങ്ങളുടെയും സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് മൂന്നു മനുഷ്യർ ചർച്ചകളിലൂടെ തങ്ങളുടെ ഉത്പന്നങ്ങൾ വിൽക്കുവാനും സംഭാഷണങ്ങളിൽ മേൽക്കൈ നേടാനും ശ്രമിക്കുന്ന പല സന്ദർഭങ്ങൾ കാണാനാകും ഇവിടെ കാണിച്ചിട്ടുള്ള വീഡിയോ ഭാഗത്തു മേഗൻ എന്ന യുവതി മൂന്ന് നിക്ഷേപകരെ കരാറുറപ്പിക്കാൻ ശ്രമിക്കുന്നത് കാണാം നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നത് മുകളിലേയ്ക്ക് വളഞ്ഞ ചുണ്ടുകൾ മാത്രമായി നിക്ഷേപകരിൽ ഒരാളുടെ മുഖമാണ് ചുണ്ടുകളുടെ രണ്ടു ഭാഗങ്ങളും ഒരേപോലെ മുകളിലേയ്ക്ക് വളയുന്നതിനാൽ അതൊരു സത്യസന്ധമായ പുഞ്ചിരിയാണെന്നും യഥാർത്ഥത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാം സ്ലോ മോഷനിൽ നോക്കിയാൽ അത് ഇങ്ങനെയാകും കാണുക ചുണ്ടിന്റെ അരികുകൾ ആദ്യം മൃദുവായി മുകളിലേയ്ക്ക് പോകുന്നത് കാണാം പിന്നീട കൂടുതൽ ഉയരുന്നു അപ്പോളതാ സത്യസന്ധമായ പുഞ്ചിരി തന്നെ സന്തോഷത്തിൻറെ ഭാവപ്രകടനം കാണാൻ അതൊരു മികച്ച ഉദാഹരണം തന്നെ ആയിരുന്നു നമുക്കത് ഒന്നുകൂടി കണ്ടു നോക്കാം മുറുകിച്ചേർന്നിരിക്കുന്ന ചുണ്ടുകളാണ് ഇപ്പോൾ കാണുന്നത് കൂടെ അയാൾ ദേഷ്യം ഉണ്ടാകാൻ ഇടയാക്കിയിടത്തേയ്ക്ക് തുറിച്ചു നോക്കുന്നുമുണ്ട് ഈ മുറുകിച്ചേർന്നിരിക്കുന്ന ചുണ്ടുകൾ ദേഷ്യത്തിൻറെ അടയാളമാണ് അതോടൊപ്പം അയാൾ തല ചലിപ്പിക്കുന്നുമുണ്ട് എന്നാൽ അതൊരു സൂക്ഷ്മഭാവമല്ല അവിടെ മറ്റെന്തൊകൂടി ഉണ്ട് അയാളുടെ മുഖത്തിൻറെ വലതു ഭാഗത്തായി ഒരു ചെറിയ അനക്കം നിങ്ങൾ കാണുന്നുണ്ടോ തല ആനക്കുന്നതിനു തൊട്ട് മുൻപായി അത് അവജ്ഞയുടെയും അധീശത്വ ഭാവത്തിൻറെയും പ്രകടനമാണ് അയാൾ കാണുന്നതും കേൾക്കുന്നതും അയാൾക്ക് ഇഷ്ടമാകുന്നില്ല അങ്ങനെയുള്ളപ്പോൾ ദേഷ്യവും പുച്ഛവും പ്രകടമാകുന്നു കുറച്ചുകൂടി അടുത്തേയ്ക്ക് പോയി കുറച്ചുകൂടി പതുക്കെ അത് കണ്ടു നോക്കാം മുറുകിച്ചേർന്ന ചുണ്ടുകളും പുഛഭാവുമാണ് ഇപ്പോ കാണുന്നത് മുഖത്തിൻറെ വലതു ഭാഗത്തായി കാണുന്ന ഈ അനക്കം ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്നത് ഇതാണ് പുച്ഛഭാവം ഇങ്ങനെയാണ് നിങ്ങളത് കാണുക ഇതാ ഈ നിമിഷം വളരെ ചെറുതായി നിങ്ങൾക്കത് കാണാനാകും ഇങ്ങനെയാണ് നിങ്ങൾ ദേഷ്യവും പുച്ഛവും മനസിലാക്കാൻ പോകുന്നത് കള്ളം കണ്ടുപിടിക്കുന്നതിന് ഏറ്റവും മികച്ച ഉപായം സൂക്ഷ്മഭാവങ്ങൾ അവലോകനം ചെയ്യുന്നതാണ് എന്ന് പോൾ എക്മാൻ തൻറെ ഗവേഷണങ്ങളിലൂടെ പറയുന്നു ഇവിടെക്കാണുന്ന ചിത്രത്തിൽ ഒരു ഭാവം സത്യസന്ധവും രണ്ടാമത്തേത് കപടവുമാണ് ഇതിൽ നിന്ന് അവ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തി കാപട്യം തിരിച്ചറിയാൻ ഇതെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് മനസ്സിലാകും സൂക്ഷംഭാവങ്ങളെക്കുറിച്ചുള്ള എക്മാൻറെ പഠനങ്ങൾ വിവിധ മേഖലകളിൽ ഉപയോഗപ്പെടുത്താനാകും ഉദാഹരണത്തിന് പലതരം ചികിത്സാ രീതികളിൽ അവ ഉപയോഗപ്പെടുന്നു രാജ്യസുരക്ഷയ്ക്ക് നേരെയുള്ള പലതരം ഭീഷണികളെ കാലേക്കൂട്ടി മനസ്സിലാക്കാൻ സൂക്ഷ്മഭാവങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ സഹായകമാണ് വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പ്രഗത്ഭരായവർ അവ പഠനവിധേയമാക്കുമ്പോൾ സൂക്ഷ്മഭാവങ്ങൾക്ക് കൂടുതൽ മേഖലകളിൽ പ്രയോജനമുണ്ടാകുന്നു വികാരങ്ങളെക്കുറിച്ചും വാക്യേതര ആശയവിനിമയത്തെക്കുറിച്ചുമുള്ള പഠനങ്ങളിൽ വിദഗ്ദനായ പോൾ എക്മാനെ ഈ മോഡ്യൂളിൽ ഞാൻ നിരന്തരം പരാമർശിച്ചിരുന്നു കാറ്റോ കെയ്ലിൻ എന്ന അമേരിക്കൻ അഭിനേതാവിനെ അധഃദേഹത്തിൻറെ മുഖത്തെ ജുഗുപ്സയും വഞ്ചനയും അടയാളപ്പെടുത്തുന്ന ഭാവങ്ങൾ പഠിക്കുവാനായി എക്മാൻ നിരീക്ഷിക്കുന്ന ഈ ഭാഗം കാണിച്ചു കൊണ്ട് ഈ മൊഡ്യൂൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് മാർഗരറ്റ് ക്ലാർക് എന്ന കുറ്റാരോപിതനെ ശത്രുതാമനോഭാവത്തോടെ ചോദ്യം ചെയ്യുന്ന വേളയിൽ മാർഗരെറ്റിൻറെ വീട്ടിൽ അതിഥിയായി എത്തിയ കാറ്റോ ക്ലെയിൻനെയാണ് നിങ്ങൾ കാണുന്നത് 1993 അവസാനിക്കാറായപ്പോൾ അയാൾ പൌള ബാർബെറിയെ ചെയ്യുകയായിരുന്നു ശരിയല്ലേ അയാൾ വളരെ കാര്യമായിത്തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് എന്ത് തോന്നിയെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും അയാൾ വളരെ ദേഷ്യത്തിലാണ് അയാളിൽ വെറുപ്പ് ദേഷ്യം ധിക്കാരം എന്നീ സൂക്ഷ്മ ഭാവങ്ങൾ അതിവേഗം മിന്നി മറയുന്നത് കാണാനാകും അയാൾ ഏകദേശം ഇങ്ങനെയാണ് കാണിക്കുന്നത് പക്ഷെ സൂക്ഷ്മഭാവങ്ങൾ ആയതുകൊണ്ട് തന്നെ അയാളത് വളരെയധികം വേഗത്തിലാണ് ചെയ്യുന്നത് മിസ്റ്റർ കെയ്ലിൻ കറൻറ് അഫയറിൽ പ്രത്യക്ഷപ്പെടാൻ നിങ്ങൾക്ക് കുറെയധികം പണം ലഭിച്ചിട്ടുണ്ട് എന്താ ശരിയല്ലേ നിങ്ങളിപ്പോൾ കാണുന്നത് ദേഷ്യത്തിൻറെയും വെറുപ്പിൻറെയും മിശ്രണമാണ് കൂടെ ഉയരുന്ന ശബ്ദവും ഇന്ന് നമ്മൾ സൂക്ഷ്മ സ്ഥൂല ഭാവങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളും നമ്മുടെ പരസ്പര ആശയവിനിമയത്തിൽ അവയെ വ്യത്യസ്തമായി മനസ്സിലാക്കുന്നതിനുള്ള പ്രാധാന്യം എന്താണ് എന്നും കണ്ടു അടുത്ത മോഡ്യൂളിൽ നമുക്ക് ഇദ്ദേഹത്തിൻറെ പുഞ്ചിരിയുടെ വിവിധ ഭാവങ്ങളും നമ്മുടെ തലയുടെ ചലനങ്ങളുടെ ആന്തരാർത്ഥങ്ങളും അങ്ങനെയുള്ള ചിലത് നോക്കാം